പബ്ലിഷ് ഓർ പേറ്റന്റ് സർവ്വകലാശാലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ ആശങ്കകളിൽ ഒന്ന് തങ്ങൾ വികസിപ്പിച്ച സാങ്കേതികവിദ്യയും കണ്ടുപിടിത്തവും പ്രസിദ്ധീകരിക്കണോ അതോ പേറ്റന്റിനായി പോകണോ എന്നതാണ് പ്രസിദ്ധികരിക്കണോ അതോ പേറ്റന്റ് ചെയ്യണോ എന്നതിനെക്കുറിച്ചുള്ള സംവാദം കുറച്ചുകാലമായി നമ്മൾ കേൾക്കുന്നു സർവകലാശാലയിലെ ഒരു ഗവേഷകന്റെയോ പ്രൊഫസറുടെയോ ജോലി ആദ്യം പ്രസിദ്ധീകരിക്കണോ അതോ പേറ്റന്റിനപേക്ഷിക്കണോ എന്നത് നിർണയിക്കുന്ന അനേകം തന്ത്രപരമായ ഘടകങ്ങളുണ്ട് എന്ന് മനസിലാക്കാൻ കഴിയും സ്ലൈഡ് സമയം കാണുക 0048 പ്രസിദ്ധീകരിക്കണോ പേറ്റന്റ് നേടണോ എന്ന ചിന്താകുഴപ്പം തിരിച്ചറിയാൻ വൈകുന്നത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും ഇതിന് ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ Imperial College London പ്രൊഫസറായ റോബർട്ട് പെർനെസ്കിയുടെ ഉദാഹരണമുണ്ട് 2010 ൽ പ്രൊഫസർ പെർനെസ്കി സെറിബ്രോസ്പൈനൽ ദ്രാവകത്തിൽ നിന്ന് പ്രോട്ടീൻ വേർതിരിച്ചു ഇത് അൽഷിമേഴ്സ് രോഗത്തിന് Alzhimer's disease ബയോ മാർക്കറായി ഉപയോഗിക്കാൻ കഴിയും മുമ്പത്തെ രോഗനിർണ്ണയരീതിയിൽ നിന്ന് കൃത്യതയിൽ ഗണ്യമായ പുരോഗതി ഇത് വാഗ്ദാനം ചെയ്യുന്നു ഇതിന്റെ അനന്തരനടപടികൾക്കായി അദ്ദേഹം തന്റെ ടി ടി ഒയെ സമീപിക്കുന്നു ടി ടി ഒ എന്നാൽ ടെക്നോളജി ട്രാൻസ്ഫർ ഓഫീസ് ഇതിന് ഇന്ത്യയിൽ തത്തുല്യമായിട്ടുള്ളതാണ് ഐ പി എം സെൽ അഥവാ ഇന്റലെക്ച്ചൽ പ്രോപ്പർട്ടി മാനേജ്മന്റ് സെൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തുവരുന്ന എല്ലാ ഐപിയും കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസാണ് ഇത് ഇത് കൂടാതെ ടിടിഒ അല്ലെങ്കിൽ ഐപിഎം സെൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതാണ് തന്റെ കണ്ടെത്തലിനെ വാണിജ്യവത്ക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ടിടിഒയെ സമീപിച്ചു അതിൽ അവർക്ക് താൽപ്പര്യമില്ലെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പ്രമുഖ അക്കാദമിക് ജേണലിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു പേപ്പറിൽ പേറ്റന്റ് ചെയ്യപ്പെടേണ്ടേ കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഇതിനകം വിശദീകരിച്ചതിനാലാണ് ഇപ്രകാരം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഇപ്പോൾ പൊതുസഞ്ചയത്തിലാണെന്നും അതിനാൽ പേറ്റന്റ് നൽകാൻ കഴിയില്ലെന്നും ടിടിഒ അവരോട് പറഞ്ഞു പല പ്രൊഫസർമാർക്കും വന്നേക്കാവുന്ന ഒരു കേസായിരിക്കാം ഇത് അവർ തങ്ങളുടെ ഗവേഷണം പ്രസിദ്ധീകരിച്ച ശേഷം പേറ്റന്റ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ മാത്രമാണ് അവർ പേറ്റന്റ് നിയമം അസാധാരണമായ സാഹചര്യങ്ങളിൽ ഒഴികെ ആദ്യം പ്രസിദ്ധീകരിക്കാനും പിന്നീട് പേറ്റന്റ് നേടാനും അനുവദിക്കുന്നില്ലെന്ന് മനസിലാക്കുന്നത് അതിനാൽ എന്താണ് പ്രസിദ്ധീകരണത്തിന്റെ പ്രശ്നം പേറ്റന്റ് നിയമ പ്രകാരം പ്രസിദ്ധീകരണം ഒരു കണ്ടുപിടുത്തത്തിന്റെ പുതുമയെ ഇല്ലാതാക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ആദ്യം പ്രസിദ്ധീകരിക്കാനും പിന്നീട് പേറ്റന്റ് നേടാനും കഴിയില്ല കാരണം അത് ഇതിൽ ഉൾപെട്ടുകഴിഞ്ഞു പേറ്റന്റ് നിയമം കണ്ടുപിടുത്തങ്ങളുടെ മുൻഗണന സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അത് ഒരു കണ്ടെത്തൽ ആദ്യമായി നടത്തി പേറ്റന്റ് ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ച വ്യക്തിയെ സംരക്ഷിക്കുന്നു അതിനാൽ നിങ്ങളുടെ കണ്ടെത്തലിനെ പരിരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പേറ്റന്റ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കുക എന്നത് എന്തെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഉണ്ടെങ്കിൽ അത് പ്രൊഫസറിൽ നിന്ന് തന്നെ ആയാലും ആ വെളിപ്പെടുത്തൽ ഒരു കണ്ടുപിടുത്തത്തിന്റെ പുതുമയെ ഇല്ലാതാക്കും അതിനാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ടീം സർവകലാശാലയിൽ എന്ത് വികസിപ്പിച്ചെടുക്കുന്നു എന്നത് പരിഗണിക്കാതെ തന്നെ പേറ്റന്റ് അപേക്ഷ സമർപ്പിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന സംരക്ഷണം ലഭിക്കുന്നതുവരെ കണ്ടുപിടുത്തം വെളിപ്പെടുത്താതിരിക്കേണ്ടത് പ്രധാനമാണ് പേറ്റന്റ് അനുവദിക്കപ്പെടണം എന്നില്ല എന്നാൽ പേറ്റന്റിനുള്ള ഒരു അപേക്ഷ ഫയൽ ചെയ്യുന്നത് മുൻഗണന സംരക്ഷിക്കുന്നു മാത്രവുമല്ല ഇത് പുതുമ ഇല്ലാതാക്കുന്ന വെളിപ്പെടുത്തലായി ഉപയോഗിക്കാനും കഴിയില്ല ഇന്ത്യയിൽ ഗ്രേസ് പിരീഡ് അനുവദിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് ഗ്രേസ് പിരീഡ് എന്നതിനർത്ഥം ഒരു പരിരക്ഷിത വെളിപെടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വെളിപ്പെടുത്തൽ ആകാമെന്നാണ് അതായത് അത്തരം വെളിപ്പെടുത്തലുകൾക്ക് നിയമപരിരക്ഷ ലഭിക്കുന്നു നമുക്ക് അതിലേക്ക് ഉടനെ വരാം പേറ്റന്റ് ആക്ട് പ്രകാരം പരിരക്ഷ നേടിയ ഒരു പരിരക്ഷിത വെളിപെടുതലാണെങ്കിൽ നിങ്ങൾക്ക് 12 മാസത്തിനകം പേറ്റന്റ് ഫയൽ ചെയ്യാൻ കഴിയും ഈ കാലയളവിനെ നമ്മൾ ഗ്രേസ് പീരീഡ് എന്ന് വിളിക്കുന്നു ഗ്രേസ് പിരീഡ് ഉപയോഗിക്കണോ വേണ്ടയോ എന്നത് സർവ്വകലാശാലയും പ്രൊഫസറും വളരെ ബോധപൂർവമായ എടുക്കേണ്ട തീരുമാനമാണ് ഒരു വ്യക്തി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട ഏത് വിവരങ്ങളും പേറ്റന്റ് അപേക്ഷ സമർപ്പിച്ച് പരിരക്ഷിക്കാതെ പ്രസിദ്ധീകരിക്കുന്നത് വിവരങ്ങൾ പൊതുസഞ്ചയത്തിലേക്ക് എത്തിക്കും പേറ്റന്റ് അപക്ഷേ ഫയൽ ചെയ്യാതെ ഒരിക്കൽ അത് പൊതു സഞ്ചയത്തിൽ എത്തികഴിഞ്ഞാൽ പേറ്റന്റ് ഓഫീസ് അക്കാര്യം പരിശോധിക്കുകയും ആ വ്യക്തിക്കെതിരായി അത് ഉപയോഗിക്കുകയും ചെയ്യും പേറ്റന്റ് അപേക്ഷ ഫയൽ ചെയ്യാതെ പ്രസിദ്ധീകരിക്കുന്നത് മറ്റുള്ളവർക്ക് അതിന്റെ പേറ്റന്റ് ലഭിക്കുന്നതിന് കാരണമാകുന്നു ഇപ്പോൾ പേറ്റന്റുകളുടെ ക്രെഡിറ്റ് തീർച്ചയായും പേറ്റന്റ് ഫയൽ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കും ഇത് ചിലസമയങ്ങളിൽ വാണിജ്യവത്കരണം നിർത്തപ്പെടുന്നതിനു പോലും ഇടയാക്കാം നിങ്ങൾ വികസിപ്പിച്ച സാങ്കേതികവിദ്യ വാണിജ്യവത്കരിക്കണം എന്നിരിക്കട്ടെ നിങ്ങൾ ആ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച് ഒത്തിരി വർഷങ്ങൾക്കു ശേഷം ഒരു ഗവേഷകനോ ഗവേഷകസംഘമോ അതെ സാങ്കേതികവിദ്യ പേറ്റന്റ് ഫയൽ ചെയ്ത് പരിരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സാങ്കേതികവിദ്യ ആദ്യമായി വികസിപ്പിച്ച വ്യക്തിയെ പേറ്റന്റ് ഉടമയ്ക്ക് തടയാൻ കഴിയും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതു പോലെ പേറ്റന്റ് നിയമം ആദ്യം ഫയൽ ചെയ്ത വ്യക്തി എന്ന തത്ത്വം പിന്തുടരുന്നു ഇന്ത്യയിലും മറ്റ് പല സ്ഥലങ്ങളിലും പേറ്റന്റ് നിയമം ആദ്യം ഫയൽ ചെയ്ത വ്യക്തിക്ക് എന്ന തത്ത്വം പിന്തുടരുന്നു അത് തത്ത്വങ്ങൾ ആദ്യം കണ്ടത്തിയത് ആര് എന്ന് അന്വേഷിക്കുന്നില്ല അതിനാൽ ആര് ആദ്യം ഫയൽ ചെയ്തു എന്ന തത്ത്വത്തെ പിന്തുടരുന്നത് കൊണ്ട് തന്റെ കണ്ടെത്തലുകൾ പരിരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പേറ്റന്റ് ഓഫീസിനെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് പേറ്റന്റ് അപേക്ഷ ഫയൽ ചെയ്യുന്നതിനെ തുടർന്ന് വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് ചില തന്ത്രങ്ങൾ നിലവിലുണ്ട് അതിലൊന്ന് വെളിപ്പെടുത്തലിനുതകുന്ന തരത്തിൽ നിങ്ങളുടേ ഗവേഷണം പൂർണ്ണമായില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു താൽക്കാലിക പേറ്റൻറ് അപേക്ഷ ഫയൽ ചെയ്യാൻ കഴിയും എന്നതാണ് കോൺഫെറെൻസുകളിൽ തങ്ങളുടെ പ്രബന്ധം അവതരിപ്പിക്കേണ്ട ചില യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ ഇത് പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അവർ ടെക്നോളജി ട്രാൻസ്ഫർ ഓഫീസുകളിൽ എത്തുകയും വെളിപ്പെടുത്തലിന് മുൻപേ താത്കാലിക പേറ്റന്റിനുള്ള അപേക്ഷ ഫയൽ ചെയ്യുകയും ചെയ്യുന്നു മറ്റൊരു രീതി പരിമിതമായ വെളിപ്പെടുത്തലുകൾ പരിരക്ഷിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന നോൺ ഡിസ്ക്ലോഷർ അഗ്രീമെൻറ്സ് അഥവാ എൻ ഡി എ ആണ് എന്നാൽ എൻ ഡി എയ്ക്ക് പൊതുസമൂഹത്തിൽ നിന്ന് വെളിപ്പെടുത്തലുകളെ പരിരക്ഷിക്കാൻ കഴിയില്ല എന്നാൽ ഇത് സാങ്കേതിക മേഖലയിലെ പങ്കാളിയോടോ വാണിജ്യവത്ക്കരിക്കാൻ താൽപ്പര്യമുള്ള പങ്കാളിയോടോ വ്യവസായ മേഖലയിലെ ഒരു വ്യക്തിയോടോ വെളിപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു എൻ ഡി എയ്ക്ക് അപ്രകാരമുള്ള നിങ്ങളുടെ പരിമിതമായ വെളിപ്പെടുത്തലിനെ പരിരക്ഷിക്കാൻ കഴിയും ഏതെങ്കിലും മൂന്നാം കക്ഷിക്ക് കണ്ടുപിടുത്തം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ടെക്നോളജി ട്രാൻസ്ഫർ ഓഫീസിനെയോ ഐ പി എം സെല്ലിനെയോ സമീപിക്കേണ്ടതാണ് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നതിനുമുമ്പ് അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ ടി ടി ഒ അല്ലെങ്കിൽ ഐ പി എം സെൽ ഒരു ഉപജ്ഞാതാവിനെ സഹായിക്കും ഇപ്പോൾ അധിക ധനസഹാത്തിനായി ഒരു മൂന്നാം കക്ഷിക്ക് എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തേണ്ടത് അത്യാവശ്യമായേക്കാം ആ സാഹചര്യത്തിൽ ആത്യന്തിക ഫലത്തിന്റെ പരിമിതമായ വെളിപ്പെടുത്തൽ സാങ്കേതികവിദ്യ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ വിശദാംശങ്ങെളെക്കാൾ ആ സാങ്കേതികവിദ്യയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതായിരിക്കണം അതായത് ഒരു സംയുക്ത സംരംഭക കരാറിൽ ഏർപ്പെടുന്നതിനും സർവകലാശാലയ്ക്ക് ധനസഹായം എത്തിക്കുന്നതിനും എങ്ങെനെ സാങ്കേതികവിദ്യ പ്രവർത്തിക്കുന്നു എന്ന് പൂർണമായും വെളിപ്പെടുത്താത്ത എന്നാൽ വിശാലമായ ഒരു തന്ത്രപരമായ വെളിപ്പെടുത്തൽ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഐ പി എം സെല്ലോ ടി ടി ഒയോ സാധാരണയായി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൊന്ന് പ്രൊഫസർമാരെയും സർവകലാശാലയിലെ ഗവേഷകരെയും ബോധവത്കരിക്കുക എന്നതാണ് ഇത് ഒത്തിരി സമയമെടുക്കുന്ന നീണ്ട പ്രക്രിയയാണ് പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ നശിക്കുക എന്നതാണല്ലോ ഇപ്പോഴത്തെ സ്ഥിരസ്ഥിതി പ്രസിദ്ധീകരണമാണ് അക്കാദമിക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന മനോഭാവം ഉണ്ടാകുന്നത് കാരണം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അവയെ പരിരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങളാകാമെന്ന വസ്തുത അവഗണിക്കുന്ന പ്രവണത ചില പ്രൊഫസർമാരിൽ കണ്ടുവരുന്നു കൂടാതെ പ്രസിദ്ധീകരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പ്രോത്സാഹനരീതികളാണിന്നധികവും ഒരു വ്യക്തിക്ക് സ്ഥാനക്കയറ്റം ഉറപ്പു വരുത്തുന്ന റാങ്കിങ്ങിൽ മുന്നേറാൻ പേറ്റന്റുകെളെക്കാൾ പ്രസിദ്ധീകരണങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു അടുത്തിടെയായി യു ജി സി മാനദണ്ഡങ്ങൾ ഫയൽ ചെയ്ത പേറ്റന്റുകളും പരിഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഗ്രേസ് പിരീഡ് ഇന്ത്യയിൽ നിലവിലുണ്ടെന്ന് പരാമർശിക്കപ്പെട്ടിരുന്നു ചില സാഹചര്യങ്ങളിൽ ഒരാൾ പരിമിതമായ വെളിപ്പെടുത്തൽ നടത്തിയാൽ ആ വ്യക്തിക്ക് പേറ്റന്റ് ഫയൽ ചെയ്യാൻ പന്ത്രണ്ട് മാസത്തെ ഗ്രേസ് പിരീഡ് ലഭിക്കുന്നു എന്നാൽ ഇത് പരിമിതമായ സാഹചര്യങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളു പേറ്റന്റ് നിയമത്തിലെ സെക്ഷൻ 31 എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം അതിൽ ഒരു പഠിത സമൂഹത്തിന് മുൻപിൽ പ്രബന്ധാവതരണത്തിലൂടെ തന്റെ കണ്ടെത്തലിനെ ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്താൻ കഴിയും എന്ന് പറയുന്നു അതിനാൽ ആദ്യത്തെ പരിരക്ഷിത വെളിപ്പെടുത്തൽ അതാണ് വെളിപ്പെടുത്തൽ ഒരു പഠിത സമൂഹത്തിന്റെ മുൻപിൽ അതായത് ഒരു കോൺഫെറെൻസിന്റെ മുൻപിൽ തന്റെ കണ്ടെത്തലിനെക്കുറിച്ചുള്ള ഒരു വിവരണമായിരിക്കും പക്ഷെ ആ കോൺഫറൻസ് സർക്കാർ നിർദേശിതം ആയിരിക്കണം അത് മാത്രമല്ല തന്റെ അനുവാദത്തോടെ മാത്രമേ ഇക്കാര്യം ആ സംഘത്തിന്റെ നടപടിക്രമങ്ങളിൽ പ്രസിദ്ധീകരിക്കാവൂ ഇവിടെ ആ പഠിത സമൂഹം ഒരു ജേർണലിന്റെ റിവ്യു ഗ്രൂപ്പ് പോലെ പ്രവർത്തിക്കുന്നു തന്റെ കണ്ടത്തെൽ അതിന്റെ നടപടിക്രമങ്ങളിൽ തന്റെ അനുവാദത്തോടെ ഉൾപ്പെടുത്തുമ്പോൾ ആ പ്രസിദ്ധികരണം ഉൾപ്പെട്ട റിവ്യു ജേണലിനെ ഒരു പഠിത സമൂഹത്തിന്റെ ഇടപാടായി കരുതാവുന്നതാണ് ഈ രണ്ട് കേസുകളിലും പേറ്റന്റിനായുള്ള അപേക്ഷ പന്ത്രണ്ട് മാസത്തിൽ കൂടാത്തതാണെങ്കിൽ അതായത് ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്ത് തന്റെ കണ്ടെത്തൽ വെളിപ്പെടുത്തി പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പേറ്റന്റ് അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ ആ വെളിപ്പെടുത്തൽ പരിരക്ഷിത കാലയളവിനുള്ളിലായിരിക്കും അതിനാൽഒരു പഠിത സമൂഹത്തിന് മുന്നിൽ തന്റെ കണ്ടത്തെൽ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജേർണലിൽ ഈ ഗവേഷണം പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിൽ മാത്രമേ ഗ്രേസ് പിരീഡ് നീട്ടാൻ കഴിയൂ ഈ വ്യവസ്ഥയിൽ ചില അനിശ്ചിതത്വം ഉണ്ടെന്ന് കാണാൻ കഴിയും ഒന്നാമതായി ഗവണ്മെന്റ് ഒരു പഠിത സമൂഹം എന്ന് നിർദ്ദേശിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല അത് വ്യക്തമാക്കുന്ന ഒരു അറിയിപ്പ് കൂടി വരേണ്ടിയിരിക്കുന്നു അതുപോലെ ഒരു പഠിത സമൂഹത്തിന്റെ ഇടപാടുകൾ എന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പേറ്റന്റ് ഓഫീസും വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി സജ്ജീകരണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവേഷകനോ അല്ലെങ്കിൽ സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്ന ഒരു പ്രൊഫസറോ പ്രസിദ്ധീകരിക്കണോ പേറ്റന്റ് ചെയ്യണോ എന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ് ഇത് വാണിജ്യവത്കരിക്കുന്നതിന് എടുക്കുന്ന സമയവും പേറ്റന്റ് ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങളും അനുസരിച്ച് എടുക്കപ്പെടേണ്ട തീരുമാനമാണ് പേറ്റന്റ് നേടിയ കണ്ടുപിടുത്തങ്ങളിൽ ശരാശരി 10 ശതമാനം മാത്രമേ വാണിജ്യപരമായി വിജയകരമാകൂ അതായത് ഫയൽ ചെയ്ത പേറ്റന്റിന്റെ 90 ശതമാനവും വാണിജ്യവത്കരിക്കപ്പെടുന്നില്ല മാത്രമല്ല ഒരു ശരാശരി പേറ്റന്റ് അത് നേടിയെടുക്കാൻ ചിലവഴിക്കപ്പെടുന്നതിലും കുറഞ്ഞ തുകയാണ് വരുമാനമായി സമ്പാദിക്കുന്നത് അതിനാൽ ഒരു പേറ്റന്റിംഗ് പ്രക്രിയ ഇന്ത്യയിൽ മാത്രം ചെയ്താൽ അതിന് ലക്ഷങ്ങൾ ചിലവ് വരും ഇനി നിങ്ങളുടെ കണ്ടെത്തൽ ഒന്നിലധികം അധികാരപരിധിയിൽ സംരക്ഷിക്കപ്പെടെണമെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങളുടെ കണ്ടുപിടുത്തം ലോകമെമ്പാടുമുള്ള 10 അധികാരപരിധികളിൽ സംരക്ഷിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒഫീഷ്യൽ ഫീയും പേറ്റന്റ് പ്രോസിക്യൂട്ട് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന പ്രൊഫഷണലുകൾക്കുള്ള ഔദ്യോഗിക ഫീസും ഉൾപ്പടെ ചിലവ് 2 കോടിയോളം വരും